ഈ സോളാർ ഹാർവെസ്റ്റിങ്ങിനെ കുറിച്ച് നമുക്ക് നോക്കാം സിസ്റ്റങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ സഹായിക്കുന്ന ചില നമ്പറുകൾ ഞാൻ തരാം ഞങ്ങൾ ഇന്നലെ ഇത് പ്രവർത്തിപ്പിക്കാർ ശ്രമിക്കുകയായിരുന്നു ഇതൊരു ചെറിയ സോളാർ പാനലാണ് ഒപ്പം ഇൻഡോറിലും ഔട്ട്ഡോറിലും ലഭിക്കുന്ന ലക്സിനെക്കുറിച്ചും ഞാൻ പറഞ്ഞിരുന്നു പാനലിന്റെ ഏരിയയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാണിച്ചുതന്ന ഈ കാൽക്കുലേഷനെക്കുറിച്ച് മനസ്സിലായിരിക്കും നിങ്ങൾക്ക് 1 സെന്റീമീറ്റർ ചതുര പാനൽ ഉണ്ടെങ്കിൽ 10 മില്ലി വാട്ട് വരെ ലഭിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അതിനാൽ ഇത് ഇവിടെ പരന്നുകിടക്കുന്നു അതിനാൽ ഞാൻ ബാക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യട്ടെ 1 ചതുരശ്ര സെന്റിമീറ്റർ നിങ്ങൾക്ക് 10 മില്ലി വാട്ട് നൽകും ഇത് യഥാർത്ഥത്തിൽ 6 സെന്റീമീറ്റർ ചതുരമാണ് ഇത് നിങ്ങൾക്ക് 60 മില്ലി വാട്ട് പവർ നൽകും ഞാൻ നിർമ്മാതാവിന്റെ സവിശേഷത പരിശോധിച്ചിരുന്നു ഇത് ഡിജി കീയിൽ ലഭ്യമാണ് നിങ്ങൾക്ക് ഡിജി കീയിൽ നിന്ന് ഇത് വാങ്ങാം അതിന് ഒരു പാർട്ട് നമ്പർ ഉണ്ട് അതായത് 869 1006 ND ഇത് പാനസോണിക് സോളാർ പാനലിൽ നിന്നുള്ളതാണ് ഈ സബ്സ്ട്രേറ്റ് യഥാർത്ഥത്തിൽ യു ക്ലാസാണ് ഇത് 20 7 മൈക്രോവാട്ട് പാനൽ മാത്രമാണെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു നിങ്ങൾക്ക് 1 മില്ലീമീറ്റർ നൽകുന്ന ഈ 1 സെന്റീമീറ്റർ സ്ക്വയർ ഞങ്ങൾ ചർച്ച ചെയ്തതുമായി പൊരുത്തപ്പെടുന്നില്ല അതിനാൽ എന്താണ് സംഗ്രഹം നിങ്ങൾ നിർമ്മാതാവിന്റെ സവിശേഷത ഗൌരവമായി എടുക്കേണ്ടതാണ് കൂടാതെ പാനലിന്റെ VI കാരക്റ്ററൈസേഷൻ നിങ്ങൾ ചെയ്യണം ലാബിലെ VI കാരക്റ്ററൈസേഷൻ നിങ്ങൾ ഒരിക്കൽ വിശദീകരിച്ചുകഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലിക്കേഷനായി അത് ഉപയോഗിക്കാം എൽടി സ്പൈസുകളുപയോഗിച്ചുള്ള സിമുലേഷനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത കാര്യങ്ങളിലേക്ക് പോകാം നിങ്ങൾ എൽടിസി 3105 ഉള്ള ഈ ബോർഡ് ഉപയോഗിച്ച് ഈ ഇൻപുട്ടിലേക്ക് കണക്റ്റുചെയ്യുക യഥാർത്ഥത്തിൽ പ്രായോഗിക സാഹചര്യങ്ങളിൽ ഔട്ട്പുട്ടിലുടനീളം ഉള്ള വോൾട്ടേജ് എന്താണ് ഇത് നിങ്ങൾക്ക് 3 3 നൽകുന്നതിനായി പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അതെല്ലാം ഈ കപ്പാസിറ്ററിലേക്ക് പോകണം ഇതൊരു സൂപ്പർ കപ്പാസിറ്ററാണ് ഞങ്ങൾ ബോൾ ബെയറിംഗുകളുടെ അവസ്ഥ നിരീക്ഷിക്കാൻ എടുത്ത ഉദാഹരണം ഓർക്കുക പ്രധാനമായും നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിനാൽ അടിസ്ഥാനപരമായി ഇത് ഒരേ ബോർഡാണ് ഹാർവേസ്റ്റ് ചെയ്യാനും യഥാർത്ഥത്തിൽ ഇത് മാറ്റാൻ എത്ര സമയമെടുക്കുമെന്ന് കണ്ടെത്താനും കഴിയുമോ എന്നാണ് ആശയം എൽടി സ്പൈസും റീഡിസൈനിഗും ഉപയോഗിച്ച് സർക്യൂട്ടിന്റെ വിലകൾ കണ്ടെത്തി നിങ്ങളുടെ സിമുലേഷൻ മോഡൽ വീണ്ടും ചെയ്യണ്ടതാണ് നിങ്ങൾക്ക് ഇമ്പ്ലിെമൻ്റ്റേഷനിൽ നിന്ന് ചെയ്യാം ഇപ്പോൾ സിമുലേഷനിലേക്ക് പോകാം അല്ലെങ്കിൽ നിങ്ങൾ സിമുലേഷനിൽ നിന്ന് യഥാർത്ഥ ഇമ്പ്ലിെമൻ്റ്റേഷനിലേക്ക് പോകണം കാരണം നിങ്ങൾ പ്രോട്ടോടൈപ്പ് ചെയ്യാൻ താൽപ്പര്യപ്പെടുമ്പോൾ ലഭ്യമായ എല്ലാ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപകരണങ്ങളിൽ നിന്നും പരീക്ഷിക്കുക എന്നതാണ് ആദ്യപടി അതിനാൽ ഇത് മറ്റൊരു വെണ്ടറിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഒരു വലിയ പാനലാണെന്നും ഇത് ഇന്റർഫേസ് ചെയ്യുന്നതാണ് ശരിയായ പരിഹാരമെന്നും എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും എൽടിസി 3105 വലിയ ഒരു പാനലാണ് ഇത് 600 മില്ലി വാട്ട് പാനലാണ് അവ നിങ്ങളുടെ അപ്ലിക്കേഷന് അനിയോജ്യമായിരിക്കും ഈ പാനലിന്റെ വലുപ്പം ഇലക്ട്രോണിക് ആവശ്യങ്ങൾക്കും മറ്റ് ആപ്ലിക്കേഷനുകൾക്കും ഒരു പ്രശ്നമായി കാണുന്നു ഇൻഡോർ അപ്ലിക്കേഷനുകൾക്കായി ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശരിക്കും ഇതോർക്കണം അതിനാൽ നമ്മൾ സോളാർ പാനലായ LTC 3105 നെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് OMPPCയുടെ സവിശേഷത കാരണം ഇതിൽ പരമാവധി പവർ പോയിൻറ് നിയന്ത്രി ക്കാൻ കഴിയുന്നു നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന രണ്ട് പാനലുകൾ ഉണ്ടെങ്കിൽ അത് 0 7 വോൾട്ടായി സജ്ജീകരിക്കാനും പാനൽ ഒരിക്കലും തകരില്ലെന്ന് ഉറപ്പാക്കാനും നിങ്ങൾ ആഗ്രഹിച്ചേക്കാം എന്നിട്ടു നിങ്ങൾക്ക് പാനലിൽ നിന്ന് എനർജി പുറത്തെടുത്ത് ഒരു കപ്പാസിറ്ററിൽ സംഭരിക്കാനോ ബാറ്ററിയിലേക്ക് ചാർജ് ട്രിക്കിൾ ചെയ്യാനോ കഴിയും അതിനാൽ ആ സാധ്യതകളെല്ലാം നിലവിലുണ്ട് എൽടിസി 3105 നെക്കുറിച്ച് കൂടുതൽ വിശദമായി അറിയാൻ ഞാൻ പറയാം ഇനി ഷിഫ്റ്റ് ഗിയറുകളെ കുറിച്ച് നോക്കാം അവ ഇത് ഹർവെസ്റ്റിങ്ങിനായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മാർഗമാണ് സോളാർ വളരെ ജനപ്രിയമാണ് മാത്രമല്ല ഇത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഉപയോഗിക്കാനുള്ള ഏക മാർഗ്ഗവുമാണ് മനുഷ്യന്റെ പൾസ് അളക്കുന്നതിനുള്ള മറ്റൊരു ഉദാഹരണം ഞാൻ എടുക്കും മനുഷ്യന്റെ പൾസ് മറ്റൊന്നുമല്ല ഹൃദയമിടിപ്പുതന്നെയാണ് ഞങ്ങൾ ഹൃദയമിടിപ്പിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഹാർവെസ്റ്റിംഗ് പവർ കണ്ടെത്തുന്നതിനുള്ള മറ്റൊരു മാർഗം നിങ്ങളെ കാണിക്കാം "ഹാർവെസ്റ്റിംഗ് പവർ" എന്ന പദം ഉപയോഗിക്കുന്നത് ബുദ്ധിമുട്ടാണ് കാരണം ഈ കേസിൽ നിങ്ങൾ ശരിക്കും ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല ഇത് കൂടുതലും പവർ ട്രാൻസ്ഫർ ആണെന്ന് ഞാൻ പറയും ഒരു ഉപകരണത്തിൽ നിന്ന് മറ്റൊരു ഉപകരണത്തിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നു ഇത് ഹാർവെസ്റ്റിംഗ് ആണ് കാരണം ഇത് ബാറ്ററിയില്ലാത്തതാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും ഈ കേസിൽ ഇതിനെ ഹാർവെസ്റ്റിംഗ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല IOT യിൽ ഗേറ്റ്വേ ഉപകരണങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ റാസ്ബെറി പൈ ബീഗിൾ ബോർഡ് ബീഗിൾ ബോൺ എന്നിവ ഉപയോഗിക്കാം എമ്പഡഡ് ബോർഡുകളുടെ ഒരു കളക്ഷൻ ആണിത് വാണിജ്യപരമായി നല്ല പവറുള്ള എളുപ്പത്തിൽ വിന്യസിക്കാവുന്ന ഗേറ്റ്വേ ഉപകരണമാണ് മൊബൈൽ ഫോൺ അതിനാൽ ഞാൻ മൊബൈൽ ഫോൺ എടുക്കും പ്രത്യേകിച്ചും നിങ്ങൾ ഒരു സ്മാർട്ട് ഫോണിനെക്കുറിച്ച് ഒരു ഉദാഹരണമായി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ട് ഫോണിൽ നിരവധി സെൻസറുകൾ ഉണ്ട് ഓരോ സെൻസറിനും ഒരു പുതിയ ആപ്ലിക്കേഷൻ ഉണ്ടാകും അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൽ പാസീവ് മെഷറിംഗ് യൂണിറ്റുകളായ IMU സെൻസറുകൾ കാണും ആക്സിലറോമീറ്റർ ഗൈറോസ്കോപ്പും മാഗ്നെറ്റോമീറ്ററും ഇതിൽ ഉൾപ്പെടുന്നു നിങ്ങൾക്ക് ഒരു ബാരോമീറ്ററും കാണും അടിസ്ഥാനപരമായി പ്രഷർ അളക്കുന്നതിന് നിങ്ങൾക്ക് ഈ ബാരോമീറ്റർ ഉപയോഗിക്കാവുന്നതാണ് അതിനാൽ ഈ ബാരോമീറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രഷർ അളക്കാൻ കഴിയും കൂടാതെ നിങ്ങൾ സ്മാർട്ട് ഫോണിലെ ആശയവിനിമയ ഇന്റർഫേസുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈഫൈയും ലോ എനർജി ബ്ലൂടൂത്തും ഉണ്ട് കൂടാതെ ചില ഫോണുകൾക്ക് എൻഎഫ്സി എന്ന ഫീൽഡ് കമ്മ്യൂണിക്കേഷനുമുണ്ട് 56 മെഗാഹെർട്സിൽ എൻഎഫ്സി പ്രവർത്തിക്കുന്നു എന്നതൊഴിച്ചാൽ ആർഎഫ്ഐഡി സാങ്കേതികവിദ്യയുടെ വിപുലീകരണമായതിനാൽ ഈ എൻഎഫ്സി സാങ്കേതികവിദ്യയെക്കുറിച്ച് ഞങ്ങൾ വിശദമായി കാണില്ല സബ് 1 ഗിഗാഹെർട്സ് ആർഎഫ് ഫ്രീക്വൻസിയിലുള്ള ആർഎഫ്ഐഡിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ചിപ്പുകൾ 13 56 മെഗാഹെർട്സിൽ പ്രവർത്തിക്കുന്നു പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് ശരിക്കും ഫീൽഡിന് അടുത്താണ് അതിനാൽ നിങ്ങൾക്ക് വളരെ സുരക്ഷിതമായ ആശയവിനിമയ മാർഗം ഉണ്ടായിരിക്കണം രണ്ട് ഉപകരണങ്ങൾക്കിടയിൽ ആശയവിനിമയം നടത്താനുള്ള വളരെ സുരക്ഷിതമായ മാർഗമാണിത് വളരെ സുരക്ഷിതമായ ആശയവിനിമയം വാഗ്ദാനം ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് പ്രോക്സിമിറ്റി ഇത് നിരവധി കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു ഞങ്ങൾ ഇപ്പോൾ ആ വിശദാംശങ്ങളിലേക്ക് കടക്കില്ല ഇത് അധികവുമായി സുരക്ഷിതമായ പേയ്മെന്റ് ആവശ്യങ്ങൾക്കായി ആളുകൾ ഉപയോഗിക്കുന്നു നിങ്ങളുടെ ഫോണിൽ ഇ ക്യാഷ് ലോഡ് ചെയ്യാൻ കഴിയും കൂടാതെ നിങ്ങൾക്ക് ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്കോ ഒരു എൻഎഫ്സി ഉപകരണത്തിൽ നിന്ന് മറ്റൊരു ഉപകരണത്തിലേക്കോ ഇ കാർഡ് കൈമാറാൻ കഴിയും അതിനാൽ സുരക്ഷിത ആക്സസ്സിനും ഇത് ഉപയോഗിക്കുന്നു പേയ്മെന്റുകൾക്കും ഇത് ഉപയോഗിക്കാം ഒരാൾക്ക് കണ്ടെത്താൻ കഴിയുന്ന എല്ലാത്തരം അപ്ലിക്കേഷനുകളും ഈ എൻഎഫ്സിയിൽ ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു ഇത് ഒരു ചിപ്പായി ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് എൻഎഫ്സിയുടെ മറ്റൊരു പ്രയോജനം ഇതിന് നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് നൽകാൻ കഴിയും ഞാൻ ഇവിടെ എൻഎഫ്സി ചിപ്പിന്റെ ഒരു ചിത്രം വരയ്ക്കാം ഇത് നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് നൽകും അത് 3 വോൾട്ട് അല്ലെങ്കിൽ 3 3 വോൾട്ട് ആകാം അത് കോയിലുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു കോയിൽ ഇന്റർഫേസ് ചെയ്യുന്നു അതിനാൽ പ്രധാനമായും നിങ്ങൾക്ക് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിൽ ഒരു കോയിലും ഒപ്പം എൻഎഫ്സി ചിപ്പും ഒരു ഉപയോക്താവുo കാണും ഞാൻ ഈ മൊബൈൽ ഫോണിലേക്ക് വിളിക്കും നിങ്ങൾ ഈ മൊബൈൽ ഫോണിനെ ഈ എൻഎഫ്സി സിസ്റ്റത്തിലേക്ക് അടുപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻഎഫ്സി മെമ്മറിയിലേക്ക് ഉപയോഗിക്കാൻ കഴിയും മൊബൈൽ ഫോൺ അപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് ഉള്ളടക്കം എഴുതാൻ കഴിയും എന്നതാണ് ഇതിന്റെ അർത്ഥം നിങ്ങളുടെ പക്കലുള്ള ചില ആപ്ലിക്കേഷൻ ഞങ്ങൾ പറയാം ഞാൻ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ അർത്ഥമാക്കുന്നത് ഒരു Android അപ്ലിക്കേഷൻ അല്ലെങ്കിൽ IOS ആപ്ലിക്കേഷൻ ആകാം ഒരു ഐഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്പിൾ വെബ്സൈറ്റുകളിൽ നിന്ന് ഡൌൺലോഡുചെയ്യാം അതിനാൽ ഞാൻ അതിനെ ഒരു അപ്ലിക്കേഷൻ എന്ന് വിളിക്കും അതിനാൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാനും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരു നല്ല ആപ്ലിക്കേഷൻ നിർമ്മിക്കാനും തുടർന്ന് ഈ ഫോണിനെ ഈ കോയിലിലേക്ക് അടുപ്പിക്കാനും കഴിയും നിങ്ങൾക്ക് ഈ മെമ്മറിയിലേക്ക് നല്ല ആക്സസ് ലഭിക്കണം നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും രസകരമായ കാര്യങ്ങൾ ചെയ്യാനും കഴിയും എൻഎഫ്സി മെമ്മറിയിൽ വായിക്കാനും എഴുതാനും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് കരുതുക പക്ഷേ മൈക്രോകൺട്രോളർ മെമ്മറിയിൽ നിന്ന് എഴുതാനും വായിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങൾ എന്തുചെയ്യും എൻഎഫ്സി ഏതെങ്കിലും തരത്തിലുള്ള ഡിജിറ്റൽ ബസിനെ പിന്തുണയ്ക്കും അത് I2C അല്ലെങ്കിൽ SPI ആകാം ഇത് സാധാരണയായി I2C അല്ലെങ്കിൽ NF ന്റെ SPI ബസ് ആണ് ഇത് ഒരു എസ്പിഐ ആണ് പക്ഷേ ചില ചിപ്പുകൾ ചില ഘടകങ്ങൾ ചില നിർമ്മാതാക്കൾ എന്നിവ കാര്യമാക്കേണ്ടതില്ല ഞങ്ങൾ നിങ്ങൾക്ക് I2C തരും ഇത് ഒരു ഡിജിറ്റൽ ബസാണ് നിങ്ങൾക്ക് ഇത് സാധാരണയായി ഒരു മൈക്രോകൺട്രോളറുമായി ഇന്റർഫേസ് ചെയ്യാൻ കഴിയും ജനപ്രിയമായ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ കുറച്ചുകാലമായി ആഴത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാം എസ്ഒസി നോർഡിക് സ്വദേശിയാണെന്ന് തോന്നുന്നു പ്രസിദ്ധമായ എൻആർസി 51822 എസ്ഒസിയിൽ ബിഎൽഇ മൊഡ്യൂൾ നിർമ്മിച്ചിരിക്കുന്നു എൻആർഎഫ് 51822 ഒരു കോർടെക്സ് എം 0 ആണ് ഇത് 32 ബിറ്റ് ആം കോർട്ടെക്സ് എം 0 പ്രോസസറാണ് അതിനാൽ ഫോൺ ജോടിയാക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് എന്തുചെയ്യാനാകും ഈ കോയിലുമായി അടുത്തിടപഴകുന്നിടത്തോളം കാലം അതിനെ കോൾ ചെയ്യുക ഡാറ്റ എഴുതുക ഡാറ്റ വായിക്കുക തുടങ്ങിയ എൻഎഫ്സി മെമ്മറിയിലേക്ക് നിങ്ങൾക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം കൂടാതെ നിങ്ങൾക്ക് എസ്പിഐ ഐ 2 സി എന്നിവയിലൂടെയും പ്രവേശിക്കാൻ കഴിയും നിങ്ങൾക്ക് മൈക്രോകൺട്രോളർ ആക്സസ് ചെയ്യാനും ആ സ്ഥാനത്തേക്ക് റൈറ്റ് റീഡ് ചെയ്യാനും കഴിയും അതിനാൽ ഒരു ഫ്ലാഷ് മെമ്മറിയോ റാം ഏരിയയോ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ എന്താണ് കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് ശരിക്കും നോക്കാൻ കഴിയും ഈ ചിപ്പ് രസകരമായ എന്തെങ്കിലും ചെയ്യുന്നു നിങ്ങൾക്ക് ഈ കോയിൽ മൊബൈൽ ഫോൺ കോയിൽ എൻഎഫ്സി കോയിൽ എന്നിവ ലഭിക്കുകയാണെങ്കിൽ എഴുതുകയും വായിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയും ഇത് നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് നൽകുമെന്നും ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഉപയോഗിച്ച് മൈക്രോകൺട്രോളറിനെ പവർ ചെയ്യാനാകും കൂടാതെ ഒരു സെൻസർ ഉപയോഗിച്ച് ഒരു അളക്കണമെന്കിൽ ഡിജിറ്റൽ സെൻസറാണോ അനലോഗ് സെൻസറാണോ എന്നതിനെ ആശ്രയിച്ച് സെൻസർ തന്നെ എഡിസി പോർട്ടിലേക്കോ ജിപിഐഒ പോർട്ടിലേക്കോ ബന്ധിപ്പിക്കണമെന്ന് നമുക്ക് പറയാം മുഴുവൻ ശൃംഖലയും ഇപ്പോൾ നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു ഈ കോയിലിനടുത്ത് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉള്ളിടത്തോളം കാലം എല്ലാം പ്രായോഗികമായി പ്രവർത്തിക്കണം ഈ സെൻസറിനും പവർ ആവശ്യമാണ് അതിനാൽ സെൻസർ റെയിലും ആവശ്യമാണെന്ന് നമുക്ക് പറയാം അതിനാൽ ഞാൻ ഇത് ഇതുപോലെ കാണിക്കും ഇതൊരു സെൻസർ റെയിൽ ആണ് ഇത് മൈക്രോകൺട്രോളറിനുള്ള വിസിസിയാണ് തീർച്ചയായും ഇവിടെ ഗ്രൌണ്ടുണ്ട് അതിനാൽ ഞാൻ ഇത് വീണ്ടും വരയ്ക്കട്ടെ അതുവഴി നിങ്ങൾക്ക് ഇത് കുറച്ച് നന്നായി കാണാനാകും ഇതാണ് മൈക്രോകൺട്രോളർ ഇതാണ് സെൻസറുകൾ എല്ലാത്തിനും വിസിസി ആവശ്യമുണ്ട് അതിനാൽ ഈ ചിത്രം നോക്കൂ ഒരു ബാറ്ററി ഇല്ലാത്ത ഒരു ഉപകരണത്തിന് സമീപം ഒരു ഫോൺ കൊണ്ടുവരിക നിങ്ങൾ ഇത് പവർ ചെയ്യുന്നു നിങ്ങൾ ഈ കോയിലുമായി പെയർ ചെയ്യുന്നു എങ്ങനെയെങ്കിലും മാജിക് എൻഎഫ്സി ജനറേറ്ററുകൾ കൊണ്ടോ മറ്റോ ഔട്ട്പുട്ട് റെയിൽ വോൾട്ടേജ് ഈ മൈക്രോകൺട്രോളറുമായി ബന്ധിപ്പിക്കുക ഈ മൈക്രോകൺട്രോളർ പവർ ഉപയോഗിച്ച് ഈ സെൻസർ റീഡ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തരം കാര്യങ്ങളും ചെയ്യാൻ കഴിയും നിങ്ങൾ ഈ ദിശയിൽ ഈ സെൻസർ മൂല്യം വായിക്കുകയും ഫ്ലാഷിലേക്കോ റാമിലേക്കോ റൈറ്റ് ചെയ്യുക തുടർന്ന് ഈ അമ്പടയാളം പിന്തുടരുക തുടർന്ന് എസ്പിഐ അല്ലെങ്കിൽ ഐ 2 സി വഴി നിങ്ങൾ ഇത് ഈ സ്ഥാനത്തേക്ക് തിരികെ എഴുതി ഫോണിലേക്ക് തിരികെ കൊണ്ടുവരിക നിങ്ങൾക്ക് ഇത് ഈ രീതിയിൽ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഇത് ഇങ്ങനെയും ചെയ്യാം പക്ഷേ എനിക്ക് ലെൻസും ചെയ്യുന്നതാണ് ഇഷ്ടം അതിനാൽ ഞാൻ ഈ റൂട്ട് എ എടുക്കും തുടർന്ന് ഞാൻ മറ്റൊരു റൂട്ട് എടുക്കും റൂട്ട് ബിയിൽ എനിക്ക് ഫോൺ ലഭിക്കും അതിനാൽ നമുക്ക് എല്ലാം ആരംഭിക്കാം ഫോൺ ഈ ഉപകരണത്തിന്റെ അടുത്ത് കൊണ്ടുവരുക നമ്മൾ നിർമ്മിച്ച ഉപകരണമാണിത് ഈ എൻഎഫ്സിയുടെ അടുത്തോട്ട് ഇതിനെ കൊണ്ടുവരുക ഞക്കൾ റെയിൽ വോൾട്ടേജായ 3 3 പവർ മൈക്രോ കൺട്രോളറിനു നൽകും അതിനാൽ സെൻസറിനും പവർ നൽകേണ്ടതുണ്ട് സെൻസർ വാല്യം റൂട്ട് ബി എഡിസി അല്ലെങ്കിൽ ജിപിഎൽപി വഴി റീഡ് ചെയ്യുന്നു നിങ്ങൾക്ക് ഇത് റാമിലേക്കോ ഫ്ലാഷിലേക്കോ മാറ്റാൻ കഴിയും ഈ ബ്ലൂടൂത്ത് റേഡിയോ സ്വിച്ച് ചെയ്ത് വയർലെസ് ആയി ആശയവിനിമയം നടത്തുക അതിനാൽ രണ്ട് റൂട്ടുകൾ ഉണ്ട് അതിൽ ഒരു റൂട്ട് എൻഎഫ്സിയിലേക്കും മറ്റേ റൂട്ട് ബി വയർലെസിലേക്കും പ്രത്യേകിച്ച് ബിഎൽഎയിലേക്കും തിരിച്ചെത്തി അതിനാൽ ഇത് ശരിക്കും പ്രവർത്തിക്കുമോ ഞങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടോ ഇത് യാഥാർത്ഥ്യമാണോ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ അതിനാൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഡെമോ കാണിക്കാം മിസ്സ് മാധുരി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ എന്നെ സഹായിക്കും അവൾ ഇവിടെയുണ്ട് ഞങ്ങൾ ഇത് ഒരുമിച്ച് ചെയ്യും ഇത് ശരിക്കും പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ സമ്പൂർണ്ണ സിസ്റ്റത്തിന്റെ ഡെമോൺസ്ട്രേഷനിലേക്ക് നമുക്ക് പോകാം അതിനാൽ നമുക്ക് ഈ ആരോഗ്യസംരക്ഷണ ഉപകരണത്തിൽ ശ്രദ്ധിക്കാം ഈ ആരോഗ്യസംരക്ഷണ ഉപകരണം അവളുടെ നടുവിരലിൽ കെട്ടിയിരിക്കുന്നു നിങ്ങൾ ഇപ്പോൾ ഇതുപോലെ ക്യാമറയിൽ കാണിക്കണം അവൾ നിങ്ങൾക്ക് ഒരു പൾസ് സെൻസർ കാണിച്ചു തരും ഒരുപക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇത് വാങ്ങിയ ഒരു സെൻസറാണ് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം അവൾ മെഷർ ചെയ്യുന്നത് പൾസ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൽ ഒരു കോയിൽ ഉണ്ട് ഈ കൺട്രോളറിന്റെ പിന്നിൽ ഇരിക്കുന്നതാണ് എൻഎഫ്സി കോയിൽ ഇത് കൺട്രോളറാണെന്നും അവർ എന്തുചെയ്യുമെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും അവർക്ക് ഈ ഫോൺ എൻഎഫ്സി കോയിൽ ലഭിക്കുകയും അതിൽ എനർജി പമ്പ് ചെയ്യുകയും ചെയ്യുന്നു അവർ ഈ ഫോണിൽ നിന്ന് ഈ സിസ്റ്റത്തിന്റെ കപ്പാസിറ്ററിലേക്ക് എനർജിയോ പവറോ മാറ്റുന്നു തുടർന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനാൽ കുറച്ച് നിമിഷങ്ങൾ ഇത് പെയർ ചെയ്യാൻ ശ്രമിക്കാം ഇപ്പോൾ അത് അവളുടെ ഓപ്പറേറ്റിംഗ് ഉപകരണത്തിന്റെ ഭാഗമായ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുന്നു അത് വിരലിൽ കെട്ടിയിരിക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന പവർ അല്ലെങ്കിൽ കപ്പാസിറ്ററിൽ സംഭരിച്ചിരിക്കുന്ന എനർജി മൈക്രോകൺട്രോളറിന് ശക്തി പകരാൻ ഉപയോഗിക്കുന്നു ഈ സെൻസർ പവർ ചെയ്ത ശേഷം പൾസ് സെൻസർ പവർ ചെയ്യുന്നു കൂടാതെ ഈ പൾസ് സെൻസർ ചുവപ്പ് നിറമാകുമെന്നും സിസ്റ്റം ചാർജ് ചെയ്തതിനുശേഷം മൊബൈൽ ഉപകരണത്തിൽ തിരികെ പ്രദർശിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു അവളുടെ വിരലിൽ ഇവിടെയുള്ള ഉപകരണങ്ങൾ ഏകദേശം 20 സെക്കൻഡ് വെയറാകുന്നു അത് ഹൃദയമിടിപ്പ് റീഡ് ചെയ്തതായി നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ അടിസ്ഥാനപരമായി ഇത് മനുഷ്യന്റെ പൾസ് റീഡ് ചെയ്യുന്ന ഒരു പൾസ് സെൻസറാണ് മാത്രമല്ല ഈ മുഴുവൻ സിസ്റ്റത്തിനും അടിസ്ഥാനപരമായി ബാറ്ററിയൊന്നുമില്ലെന്ന് നിങ്ങൾക്ക് കാണാനും കഴിയും ഹാർഡ്വെയർ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചുതരാം എൻആർഎഫ് ബോർഡിനുള്ളിൽ ഒരു ചെറിയ കൺട്രോളർ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാൻ സൂചിപ്പിച്ച എൻആർഎഫ് ഹാർഡ്വെയർ ബാറ്ററി ലെസ്സായ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള മറ്റൊരു മാർഗമാണ് ഈ ഡെമോയിൽ അത് റൂട്ട് ബി എടുത്തിരിക്കുന്നതായി നമുക്ക് കാണാം റൂട്ട് ബി പ്രധാനമായും പോർട്ടിൽ നിന്ന് ബ്ലൂടൂത്ത് വഴി പോകുന്ന റൂട്ടാണ് അതിനാൽ ഇത് ഈ വഴി എടുത്തിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പരീക്ഷിക്കാം ഞാൻ ഇത് ഉണ്ടാക്കാൻ ശ്രമിച്ചു നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ ഈ സിസ്റ്റം പൂർണ്ണമായും പ്രോട്ടോടൈപ്പ് ചെയ്യാൻ ഞങ്ങൾ ഉപയോഗിച്ച സോഫ്റ്റ്വെയർ കോഡിലൂടെ ഇത് എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്ന് ഞങ്ങൾ കാണിക്കാൻ ശ്രമിക്കും അതിനർത്ഥം ഈ സിസ്റ്റത്തിന് വെല്ലുവിളികളൊന്നുമില്ല എന്നല്ല ഞാൻ നിങ്ങൾക്ക് സ്ലൈഡുകൾ കാണിച്ചു തരാം അങ്ങനെ ഇതിന്റെ സ്റ്റോറി നമുക്ക് പൂർത്തിയാക്കാം കൂടാതെ ബാറ്ററിലെസ്സായുള്ള ഉപകരണം നിർമ്മിക്കുന്നതിന്റെ ചുരുക്കവിവരണം മനസ്സിലാക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും ഞാൻ തയ്യാറാക്കിയ കുറച്ച് സ്ലൈഡുകളിലേക്ക് പോകാം ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ബാറ്ററിലെസ് പൾസ് മീറ്ററാണ് ഇപ്പോൾ സിസ്റ്റം ഇൻഡക്സ് വിരലിലേക്കോ നടുവിരലിലേക്കോ ഇട്ടിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഇപ്പോൾ മെഷർമെന്റ് ചെയ്യാം അതിനാൽ എന്താണ് ഇതിൻ്റെ ഓവർവ്യു ഇത് ഐആർ റിഫ്ലെക്റ്റീവ് രീതി ഉപയോഗിച്ച് ഹൃദയമിടിപ്പ് അളക്കുന്നു ഇത് ഒരു ഓപ്പൺ സോഴ്സ് ഹാർഡ്വെയറാണ് ഇത് പൾസർ കണ്ടെത്താനായി ഒരു ഫോട്ടോഡയോഡും ആംബിയന്റ് ലൈറ്റ് സെൻസറും ഉപയോഗിക്കുന്നു സിഗ്നലിനായി ഞങ്ങൾ ഈ എൻആർഎഫ് 51822 എസ്ഒസി ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ ഇതിനകം നിങ്ങളോട് പറഞ്ഞിരുന്നു കൂടാതെ ഡാറ്റാ പ്രോസസ്സിംഗും സിസ്റ്റവും എൻഎഫ്സി എനേബിൾ ചെയ്ത ഫോണിലൂടെയാണ് പ്രവർത്തിക്കുന്നത് കൂടാതെ റൂട്ട് ബിയുമായുള്ള ആശയവിനിമയം ലോ എനർജി ബ്ലൂടൂത്ത് സിസ്റ്റം വഴിയാണ് ഇങ്ങനെയാണ് നിങ്ങൾ അറ്റാച്ചുചെയ്യുന്നത് ഇത് നിങ്ങൾ യഥാർത്ഥത്തിൽ മെഷർമെന്റിനായി ഉപയോഗിക്കും ഹാർഡ്വെയർ സവിശേഷതകൾ സെൻസർ നിർമ്മാതാവ് സൂചിപ്പിച്ചതിൽ നിന്ന് നമുക്ക് കിട്ടും സെൻസർ 3 3 മുതൽ 5 വോൾട്ട് വരെ പ്രവർത്തിക്കുന്നു നിലവിലെ കൺസപ്ഷൻ ഏകദേശം 4 മില്ലിയാംപിയറാണ് ഇതിന്റെ പരമാവധി ഡയമീറ്ററും സൂചിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ നിർമ്മിച്ച സിസ്റ്റം 3 3 വോൾട്ടിലാണ് പ്രവർത്തിക്കുന്നത് അതിനാൽ നിലവിലെ ഉപഭോഗം കുറവാണ് പവർ മോഡ് 1 5 മില്ലിയാംപിയറാണ് എഡിസി സാമ്പിളിന് 6 5 മില്ലിയാംപിയറും ബിഎൽഇ ട്രാൻസ്മിഷൻ മോഡിന് 0 ഡിബിഎം ട്രാൻസ്മിഷൻ പവറിൽ 13 5 മില്ലിയാംപിയറും ആവശ്യമാണ് ആ സ്പെസിഫിക്കേഷൻ നോക്കി നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ആവശ്യമുള്ള പവർ കണ്ടെത്തുക നിങ്ങൾക്ക് ചുറ്റുമുള്ള ഉപകരണങ്ങളിൽ ഇത് ചെയ്യാൻ കഴിയും കാരണം നിങ്ങൾക്ക് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യാനും ഇത്തരത്തിലുള്ള പവർ ഗസ്ലിംഗ് നടത്താനും കഴിയും കാരണം കുറഞ്ഞ പവർ ഉള്ള സ്ഥലത്ത് ഇത് തികച്ചും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നു 0 dBm ൽ 13 5 മില്ലിയാംപിയർ ഒരു വലിയ സംഖ്യയാണ് അതുപോലെ തന്നെ ADC സാമ്പിളും അതിനാൽ നിങ്ങൾക്കിത് നിർമ്മിക്കാൻ കഴിയും ഞങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മെഷർമെന്റ് ചെയ്യുമ്പോൾ സിസ്റ്റം വളരെ സ്റ്റേബിൾ ആണെന്ന് കാണാം ഇവിടെ നിങ്ങൾ ഇടതുവശത്ത് കാണുന്ന ആദ്യ ചിത്രത്തിൽ മൈക്രോകൺട്രോളറിലുടനീളം ഉള്ള വോൾട്ടേജ് യഥാർത്ഥത്തിൽ അൺ സ്റ്റേബിളായിരുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും പൾസ് സെൻസർ ഫലപ്രദമായി ഉപയോഗിക്കാനും പവർ ചെയ്യാനും അനുവദിക്കുന്ന ഒരു വേവ് ഫോം ഇവിടെ ലഭിക്കുന്നതിന് നമ്മൾക്ക് ധാരാളം മാറ്റങ്ങൾ വരുത്തേണ്ടിവരും അതിനാൽ ആ കറക്ഷൻ ആവശ്യമാണ് ധാരാളം വെല്ലുവിളികൾ ഉണ്ടായിരുന്നു വോൾട്ടേജിൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തത് വിശ്വസനീയമല്ലാത്ത സെൻസർ വാല്യുകൾക്ക് കാരണമാകുന്നു എൻഎഫ്സി വഴിയുള്ള നിലവിലെ ഡിസ്ട്രിബ്യൂഷൻ 4 മില്ലിയാംപിയറുകളായി പരിമിതപ്പെടുത്തി സിസ്റ്റത്തിന് 3 5 മില്ലിയാംപിയർ ആവശ്യമാണ് ഞാൻ ഇവിടെ എഴുതിയ പവർ മാനേജുമെന്റ് അൽഗോരിതം നോക്കൂ നിലവിലെ ചില ആവശ്യകതകളെ മറികടക്കാൻ സൂപ്പർ കപ്പാസിറ്ററിന്റെ ഈ ഉപയോഗം പകുതിയായി കുറയ്ക്കാo ഇത് തീർച്ചയായും ഒരു വെല്ലുവിളി നിറഞ്ഞ പ്രോജക്റ്റ് ആണ് ബാറ്ററിലെസ്സായ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ചില നിർണായക ബോഡി പാരാമീറ്ററുകൾ മെഷർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു അക്കാദമിക് വീക്ഷണകോണിൽ നിന്ന് വളരെ നല്ല കാര്യമാണ് എന്നാൽ ഏതെങ്കിലും പ്രൊഫഷണൽ ആവശ്യങ്ങൾക്കായി നിങ്ങൾ ഈ പൾസ് സെൻസർ ഉപയോഗിക്കണമെന്ന് ഞാൻ പറയില്ല വാസ്തവത്തിൽ ഇവ എഫ്ഡിഎ അംഗീകരിച്ച സെൻസറുകളല്ല അതിനാൽ നിങ്ങളുടേതായ ചില സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നല്ല ഉപകരണമാണിത് ഇത് നിങ്ങൾക്ക് ആദ്യത്തെ കട്ട് നൽകുന്നു ഇത് നിങ്ങൾക്ക് വളരെ കൃത്യമായ പൾസ് നൽകല്ല അതായത് ഇത് നിങ്ങൾക്ക് ഹൃദയമിടിപ്പ് കൃത്യമായി നൽകാൻ പോകുന്നില്ല പക്ഷേ നിങ്ങൾക്ക് അത് അറിയാൻ കഴിയും അതിനാൽ ഇത് പൂർണ്ണമായും അക്കാദമിക് ഹോബി വീക്ഷണകോണിൽ നിന്നുള്ളതാണെന്ന് ഞാൻ പറയും യഥാർത്ഥത്തിൽ ഈ സെൻസർ ഒരു ഓപ്പൺ സോഴ്സായി ലഭ്യമാണ് ഈ സെൻസറിനായുള്ള എല്ലാ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഡ്രൈവറുകളും ആർഡിനോയിൽ ലഭ്യമാണ് പൾസ് സെൻസർ ഡോട്ട് കോമിലേക്ക് പോയാൽ ഏകദേശം 25 ഡോളറിന് ഇത് വാങ്ങാം നിങ്ങൾക്ക് ഇത് ഇന്റർഫേസ് ചെയ്യാനും ഒപ്പം ഹൃദയമിടിപ്പ് കിട്ടാനും തുടങ്ങും ഇത് വിരലിലോ ചെവി ടിപ്പിലോ വെയ്ക്കാ മാത്രമല്ല ഹൃദയമിടിപ്പ് വളരെ ഫലപ്രദമായി അളക്കുന്നതിനുള്ള നല്ല സ്ഥലങ്ങളാണിവ സിസ്റ്റത്തിന്റെ വിജയകരമായ പ്രവർത്തത്തിനും വാല്യുകൾ കൃത്യമാവി റീഡ് ചെയ്യാനും ധാരാളം സോഫ്റ്റ്വെയർ ഹാക്കുകളുo പവർ മാനേജുമെന്റ് അൽഗോരിതങ്ങളും ആവശ്യമാണ് നിങ്ങൾക്ക് ആ വാല്യു റീഡ് ചെയ്യാൻ കഴിയും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് സോളാർ പവർ ട്രാൻസ്ഫർ കാണിച്ചു തന്നു എൻഎഫ്സി ഉപയോഗിച്ച് ബാറ്ററി ലെസ് പവർ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നു അതിനാൽ ഞാൻ മറ്റൊരു ഹാർവെസ്റ്റിംഗ് രീതിയിലേക്ക് പോകുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പരീക്ഷണങ്ങൾ ചെയ്യാൻ കഴിയുമൊ ഹ്യൂമൻ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ കഴിയുമോ ശരീര ചൂടിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന മറ്റൊരു രസകരമായ കാര്യമാണ് അതിനാൽ മറ്റൊരു ഡെമോയിലേക്ക് പോകാം അതിലൂടെ നമുക്ക് ചുറ്റുമുള്ള താപനില വ്യത്യാസങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും നേടാനാകുമോ എന്ന് നിങ്ങൾ കാണണം ഉദാഹരണത്തിന് നിങ്ങൾ 19 മുതൽ 22 ഡിഗ്രി വരെ മാറുന്ന എസി റൂമിലാണെന്നു കരുതുക ശരീര താപനില സാധാരണഗതിയിൽ 36 ആണ് അതിനാൽ നിങ്ങൾക്ക് ഏകദേശം 12 മുതൽ 14 വരെ ∆t താപനില വ്യത്യാസമുണ്ട് ഈ താപനില വ്യത്യാസം ഉപയോഗിച്ച് ഹാർവെസ്റ്റിംഗ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കേണ്ടതുണ്ട് ഭൌതികശാസ്ത്ര തത്വമായ പെൽറ്റിയർ സീബെക്ക് ഇഫക്റ്റ് എന്നിവ അടിസ്ഥാനമാക്കിയുള്ളതാണിത് ബെക്ക് ഇഫക്റ്റ് പ്രത്യേകമായി നോക്കുക കാരണം നിങ്ങൾ ഒരു താപനില ഡിഫറൻഷ്യൽ പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു വോൾട്ടേജ് ഔട്ട്പുട്ട് ലഭിക്കും ശരീര ചൂടിൽ നിന്ന് നമുക്ക് യഥാർത്ഥത്തിൽ എന്തെങ്കിലും എടുക്കാൻ കഴിയുമോ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വിയറിബിൾ ആയിട്ടുള്ളവ നോക്കുകയാണെങ്കിൽ പലതരം ആപ്പിക്കേഷനുകൾ ഉണ്ട് ഫിറ്റ്നെസിനായി അല്ലെങ്കിൽ സാധാരണ നിരീക്ഷണത്തിനായി നിങ്ങൾ ഉപയോഗിക്കുന്ന വിയറബിൾ പവർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കാം നിങ്ങൾക്ക് തുടർച്ചയായ നിരീക്ഷണം ആവശ്യമുള്ളതിനാൽ ഈ സംവിധാനങ്ങൾ സാധാരണയായി ഒരു ബാറ്ററിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ എനർജി ഹാർവെസ്റ്റിഗിന് ആ ഉപകരണങ്ങൾക്ക് പവർ നൽകാനുള്ള കഴിവുണ്ട് പക്ഷേ റീചാർജ് ചെയ്യാവുന്ന ബാറ്ററി ചാർജ് ചെയ്യാനുള്ള കഴിവുണ്ട് അതായത് നിങ്ങൾ അത് പുറത്തെടുത്ത് ചാർജിംഗ് പോഡിൽ ഇടേണ്ടി വരില്ല ഇത് നിങ്ങളുടെ ശരീരത്തിൽ വെയ്ക്കുമ്പോഴും എല്ലാ സമയത്തും സിസ്റ്റം ചാർജ് ചെയ്യാൻ കഴിയും അതായത് ഇത് നിങ്ങൾക്ക് 20X7 തരത്തിലുള്ള പവർ ഉപകരണം നൽകുന്നു ഇത് നിരവധി വർഷങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു നിങ്ങൾ ബാറ്ററി അധിഷ്ഠിത ഡിസൈനുകൾ നോക്കുകയാണെങ്കിൽ അത് 10 വർഷത്തേക്ക് നിലനിൽക്കണം അല്ലാത്തപക്ഷം ഇത് അർത്ഥമാക്കുന്നില്ല അതിനാൽ ചാർജ്ജ് ചെയ്യാനും എല്ലായ്പ്പോഴും നല്ല അവസ്ഥയിൽ സൂക്ഷിക്കാനും നിങ്ങൾക്ക് കഴിയണം അതായത് ഒരു ബാറ്ററിയും മാറ്റിസ്ഥാപിക്കാതെ ഉപകരണം 10 വർഷത്തേക്ക് പ്രവർത്തിക്കണം ഇതിനായി തെർമോ ഇലക്ട്രിക് ജനറേറ്റർ എന്ന് വിളിക്കുന്ന മറ്റൊരു തരം ഉപകരണത്തിന്റെ ഡെമോ ഞാൻ കാണിച്ചുതരാം ഇത് TEG ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും എനിക്ക് ഇവിടെ ഉള്ളത് ഒരു തെർമോ ഇലക്ട്രിക് ജനറേറ്ററാണ് അത് വളരെ കട്ടിയുള്ളതല്ല ഒരു ചൂടുള്ള വശമുണ്ട് തുടർന്ന് ഒരു തണുത്ത വശവുമുണ്ട് ഞാൻ നിങ്ങളെ ഇത് കാണിക്കാം അതിനാൽ ഞാൻ ചെയ്തത് ഞാൻ ഇവിടെയുള്ള ഒരു പിസിബിയുമായി ബന്ധിപ്പിച്ചു ഇത് പിസിബി ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും കൂടാതെ ഈ സിസ്റ്റത്തിലുടനീളം ഏത് തരത്തിലുള്ള വോൾട്ടേജ് വികസിക്കുന്നുവെന്ന് കാണിച്ചുതരാം അതിനാൽ എന്റെ നിർദ്ദേശം പാലിക്കുക ഞാൻ ഇവിടെ ചൂടുള്ള വശം എന്റെ ശരീരവുമായി ബന്ധിപ്പിക്കും ഞാൻ ഒരു ഹാർവെസ്റ്റിംഗ് നടത്തും അതിനാൽ ഞാൻ മീറ്റർ തിരികെ വയ്ക്കാം ഞാൻ കണക്റ്റുചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം TEG ഇവിടെയുണ്ട് ഇത് ഒരു പിന്തുണയായി ഉപയോഗിക്കുകയും Vout ൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നും കാണാം ഞാൻ 1 6 വോൾട്ട് അളക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് എനിക്ക് 1 6 നൽകുന്നു അതിനാൽ എനിക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് 1 3 ആണ് അതിനാൽ ഇത് ആരംഭിക്കുകയും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുകയും ചെയ്താൽ എനിക്ക് 1 8 ലഭിക്കുന്നതായി കാണാം അങ്ങനെ ഞാൻ ഈ വഷം ചൂടാക്കുകയും മറ്റൊരു മെഷർമെന്റ് ചെയ്യുകയും ചെയ്യും ഇത് പരിധിക്ക് മുകളിലായി പോയി എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് 4 വോൾട്ട് വരെ വികസിച്ചതായി നിങ്ങൾക്ക് കാണാം താപനില വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഉപകരണത്തിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യാമെന്നത് വ്യക്തമായ സൂചകമാണിത് ഇപ്പോൾ ഇത് 3 4 ആയി കുറഞ്ഞു എനിക്ക് ഔട്ട്പുട്ട് കാണിക്കാൻ കഴിയണം ഇപ്പോൾ അത് താഴേക്ക് വരുന്നു അതിനാൽ ശരീര ചൂടിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു മാർഗമാണിത് എന്താണ് ഈ സെൻസർ അതിന്റെ വിശദാംശങ്ങൾ എന്താണ് ഞങ്ങൾ ഇത് എങ്ങനെ ചെയ്യും സിമുലേഷൻ പഠനത്തിന്റെ അതേ സ്റ്റാൻഡേർഡ് മാതൃകയിലേക്ക് നിങ്ങൾക്ക് തിരികെ പോകാമോ ആദ്യം സിമുലേഷൻ പഠനവും തുടർന്ന് ഈ സിസ്റ്റം ഞങ്ങളുടെ വിയറബിളിനെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപാധിയാണോ എന്ന് കാണാനും ശ്രമിക്കുന്നു അടുത്തതായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രധാന കാര്യം അതാണ് താൽപ്പര്യമുള്ള സെൻസറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം നിങ്ങൾ ഇവിടെ കണ്ട സെൻസർ പ്രധാനമായും ഒരു തെർമോ ഇലക്ട്രിക് ജനറേറ്ററാണ് ഇത് വളരെ കട്ടിയുള്ളതല്ലെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അതിന് ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട് അതിന് രണ്ട് വശങ്ങളുണ്ട് ഒരു ചൂടുള്ള വശവും തണുത്ത വശവും ഈ ഭാഗമാണ് ചൂടുള്ള വശം ഇവിടെ ചൂട്ട് എന്ന് എഴുതിയിട്ടുണ്ട് ഇതാണ് തണുത്ത വശം അതിനാൽ നിങ്ങൾ ഡിഫറൻഷ്യൽ നിലനിർത്തുകയാണെങ്കിൽ ഈ തെർമോ ഇലക്ട്രിക് ജനറേറ്ററിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം ഞാൻ ഇവിടെ ഒരു ഇലക്ട്രോണിക്സ് കണക്റ്റുചെയ്തിട്ടുണ്ട് തുടർന്ന് മൾട്ടി മീറ്ററിലുടനീളം ഔട്ട്പുട്ട് വോൾട്ടേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്നിരുന്നു തെർമോ ഇലക്ട്രിക് ജനറേറ്ററുകൾ മനസിലാക്കാൻ നമുക്ക് മുന്നോട്ട് പോകാം ഇനി നമുക്ക് മറ്റ് എനർജി ഹാർവെസ്റ്റിങ്ങുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഞാൻ നിങ്ങളോട് തെർമോ ഇലക്ട്രിക് ജനറേറ്ററിനെ കുറിച്ച് പറഞ്ഞിരുന്നു എനർജി ഹാർവെസ്റ്റിങ്ങിന്റെ മറ്റൊരു രൂപമാണിത് ഞങ്ങൾ പിന്നീട് വിശദാംശങ്ങളിലേക്ക് കടക്കും പക്ഷേ പിസിബിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ച ഇലക്ട്രോണിക്സുമായി ഇന്റർഫേസ് ചെയ്യുന്നതിന് ഞാൻ യഥാർത്ഥത്തിൽ ഈ എനർജി എങ്ങനെ ഉപയോഗിച്ചുവെന്ന് നിങ്ങൾ മനസിലാക്കാൻ ആഗ്രഹിച്ചേക്കാം അടിസ്ഥാനപരമായി ഞാൻ ചെയ്തത് TEG ആണ് അത് ഒരുതരം ചതുരാകൃതിയിലുള്ളതും ബന്ധിപ്പിച്ചതുമാണ് ലീനിയർ ടെക്നോളജികളിൽ നിന്നും ഞാൻ ഇത് ഐസിയുമായി ബന്ധിപ്പിക്കുന്നു ഇതിനെ എൽടിസി 3109 എന്ന് വിളിക്കുന്നു എൽടിസി 3109 ലേക്ക് കണക്റ്റുചെയ്യുന്നതിന് മുമ്പ് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ബ്ലോക്കിലൂടെ കടന്നുപോയി എനിക്ക് ഇവിടെ V ലഭിച്ചു ഇത് അടിസ്ഥാനപരമായി നിങ്ങൾക്ക് നൽകുന്ന ഒന്നാണ് ഇതാണ് TEG അതിനാൽ ഇത് TEG ആണ് ഈ TEG എന്റെ ശരീരത്തിൽ പ്രയോഗിച്ചു ഞാൻ അത് നിങ്ങളെ കാണിച്ചില്ല പക്ഷേ ശരീരത്തിൽ നിന്ന് ലഭിക്കുന്ന ഇൻപുട്ട് ഏകദേശം 30 മില്ലിവോൾട്ടാണെന്ന് ഞാൻ കാണിച്ചുതരാം ഇത് നല്ലതാണെന്ന് ഞാൻ കരുതുന്നു മറ്റേതെങ്കിലും മെഷർമെന്റിന് പോകുന്നതിനുമുമ്പ് ഇത് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇത് തിരികെ മാറ്റട്ടെ ഞാൻ ഇൻപുട്ടിലേക്ക് കണക്റ്റുചെയ്യാം അതിനാൽ ഈ ചൂടുള്ള വശം എന്റെ ശരീരത്തിലേക്ക് തിരികെ വയ്ക്കട്ടെ അതിലൂടെ ഞാൻ ഒരു മെഷർമെന്റ് നടത്തുന്നു അങ്ങനെ ഇൻപുട്ട് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം അതിനാൽ ഇത് 20 ആണ് അത് അളക്കുന്നത് നിങ്ങൾക്ക് കാണാം അതിനാൽ ഇത് ഏകദേശം 26 ആയി ഉയർന്നു ഞാൻ ഒരാൾ മാത്രമായതിനാൽ ഈ മെഷർമെന്റ് ചെയ്യാൻ പാടാണ് എന്നാലും ഞാൻ ശ്രമിക്കാം ഇത് ശരീരത്തിൽ നിന്ന് ഏകദേശം 30 മില്ലിവോൾട്ട് ഇൻപുട്ട് നൽകുന്നു ശരീരത്തിൽ നിന്ന് വരുന്നത് ഏകദേശം 30 മില്ലി വോൾട്ടാണ് ഞങ്ങൾ ഇത് സാധാരണ ചെയ്യുന്നത് ഒരു ട്രാൻസ്ഫോർമറിലൂടെയാണ് ഞങ്ങൾ 1 100 എന്ന ട്രാൻസ്ഫോർമറിലേക്ക് ഈ ഇൻപുട്ട് നൽകുകയും വോൾട്ടേജ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ഈ എൽടിസിയിലേക്ക് നൽകുക തുടർന്ന് എൽടിസി പ്രവർത്തനക്ഷമമാക്കുക ഇത് അടിസ്ഥാനപരമായി DC DC കൺവെർട്ടറാണ് മാത്രമല്ല ഇത് നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് നൽകുന്നു അതിനാൽ ശരീര താപം ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള സർക്യൂട്ടുകളിൽ നിന്ന് നമുക്ക് 3 3 ലഭിക്കും ഔട്ട്പുട്ടിൽ ഞങ്ങൾക്ക് 3 വോൾട്ട് അല്ലെങ്കിൽ 3 3 ലഭിക്കുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു വാസ്തവത്തിൽ അത് ഇതിലും ഉയർന്നതാണ് 5 വോൾട്ട് വരെ പോകാൻ കഴിയുന്ന ക്രമീകരണത്തോടെ ഇത് ഉയർന്ന് പോകാം എന്നാൽ ഇത് നിയന്ത്രിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സർക്യൂട്ട് ഈ ചിപ്പിലേക്ക് കൊണ്ടുവരാൻ ഒരു മാർഗമുണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് 3 3 ആയി പരിമിതപ്പെടുത്താൻ ഞങ്ങൾ നിങ്ങളെ അനുവദിക്കും ഈ ഭാഗം രസകരമാണ് കാരണം നിങ്ങൾക്ക് ചാർജ് ചെയ്യാനും റീചാർജ് ചെയ്യാനും കഴിയുന്ന ബാറ്ററിയിലേക്ക് എനർജി നൽകാനും കഴിയും അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് റീചാർജ് ചെയ്യാവുന്ന ബാറ്ററിയിൽ ഇടാൻ നിങ്ങൾക്ക് കഴിയണം തീർച്ചയായും നിങ്ങൾക്ക് ഇത് നേരിട്ട് ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് ചാർജിംഗ് സർക്യൂട്ട് ഉണ്ടായിരിക്കണം പക്ഷേ ചാർജിംഗ് സർക്യൂട്ട് കാരണം വോൾട്ടേജ് പരിരക്ഷ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നിങ്ങൾ റീചാർജ് ചെയ്യാവുന്ന ബാറ്ററിയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ ലിഥിയം ബാറ്ററിയാണ് നോക്കേണ്ടത് അതിനാൽ ലിഥിയം ബാറ്ററികൾ വളരെ സെൻസിറ്റീവ് ആണ് സ്ഫോടനത്തിന് സാധ്യതയുള്ളതിനാൽ നിങ്ങൾ അമിത ചാർജ് ചെയ്യാത്ത പാടില്ല അതിനാൽ ഒരു നല്ല ചാർജിംഗ് സർക്യൂട്ടിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ ബോഡിയുടെ ചൂട് ഉപയോഗിക്കാം മാത്രമല്ല ബാറ്ററി വിയറബിളിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഇതെല്ലാം യഥാർത്ഥത്തിൽ സാധ്യമാണ് അതിനാൽ ഈ ട്രാൻസ്ഫോർമർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന വിശദാംശങ്ങളിലേക്ക് കടക്കാം റീചാർജ് ചെയ്യാവുന്ന ഈ ബാറ്ററിയിൽ നിങ്ങൾക്ക് എനർജി പകരാം വളരെ ചെറിയ അളവിൽ വൈദ്യുതി ആവശ്യമുള്ള മൈക്രോകൺട്രോളറിന് എല്ലായ്പ്പോഴും പവർ നൽകാൻ ഞാൻ ഈ എനർജി ഉപയോഗിക്കും അതിനാൽ നമ്മൾ സംസാരിക്കുന്ന TEG എന്നത് വളരെ കുറഞ്ഞ resistanceulla റസിസ്റ്റൻസുള്ള ഒന്നാണ് ഞങ്ങൾ 2 5 ഓംസ് ക്രമത്തിൽ റസിസ്റ്റർസ് എടുക്കുന്നു ഏകദേശം 3 ഓംസ് ഉള്ള TEG നായി നിങ്ങൾ അന്വേഷിക്കണം ആ റെയിഞ്ചിൽ ലഭിക്കുന്ന എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ച് വാങ്ങണം അതിനാൽ എൽടിസി 3109 ന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ടിഇജിയുടെ സോഴ്സ് റെസിസ്റ്റൻസുമായി നന്നായി മാച്ച് ആകുന്നു ഉയർന്ന സോഴ്സ് റെസിസ്റ്റൻസുള്ള ടി ജികൾ വാങ്ങുന്നത് നിങ്ങൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ എൽടിസി 3109 ഒരുപക്ഷേ ഒരു നല്ല ഐസി ആയിരിക്കില്ല നിങ്ങൾക്ക് എംപിപിസി ഭാഗം ഉള്ള സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ എൽടിസി 3105വോ പരീക്ഷിക്കാർ താല്പര്യം കാണും നിങ്ങൾക്ക് ടിഐ ബിക്യു 25504ും പരീക്ഷിക്കാൻ കഴിയും അതിലൂടെ നിങ്ങൾക്ക് ഐസി റസിസ്റ്റൻസ് ഇൻപുട്ട് റസിസ്റ്റൻസ് എന്നിവ അറിയാവുന്നതുപോലെ ഐസി ക്രമീകരിക്കാൻ കഴിയും അതിനാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം അതാണ് നിങ്ങൾ നിർമ്മാതാവിൽ നിന്ന് TEG വാങ്ങുകയാണെങ്കിൽ മറ്റൊരു നിർമ്മാതാവിന്റെ പവർ കണ്ടീഷനിംഗ് ശ്രദ്ധിക്കുക നിർമ്മാതാവ് ബി സോഴ്സ് റസിസ്റ്റൻസും ഐസിയുടെ ഇൻപുട്ട് റസിസ്റ്റൻസും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവ രണ്ടും നിങ്ങൾക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എക്സ്ട്രാക്റ്റുചെയ്യാനാകുന്ന രീതിയിൽ പൊരുത്തപ്പെടുത്തുന്നു ഇപ്പോൾ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും 30 മാത്രം ലഭിക്കേണ്ട ആവശ്യമില്ല അതിനാൽ നിങ്ങൾക്ക് സാധാരണയായി 30 മില്ലിവോൾട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഒരു നല്ല താപനില വ്യത്യാസം നിലനിർത്തുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര നല്ല ഔട്ട്പുട്ട് ലഭിക്കും അതിനാൽ ഞങ്ങൾക്ക് TEG എടുക്കാം